അതിനാൽ അടിസ്ഥാനപരമായി ഉപയോഗിക്കുന്ന സെൻസറുകളുടെ വ്യവസായങ്ങൾക്ക് പ്രത്യേകമായുള്ള ചില ആവശ്യകതകളെക്കുറിച്ചും ഈ വ്യവസായ ഇടം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എങ്ങനെ സെൻസറുകൾ സഹായിക്കുമെന്നതിനെക്കുറിച്ചും ഞാൻ നിങ്ങളെ തുറന്നുകാട്ടാൻ പോകുന്നു നമുക്ക് ഈ പ്രശ്നങ്ങൾ വിശദമായി നോക്കാം പക്ഷേ അത് ചെയ്യുന്നതിന് മുമ്പ് ഒരു റീക്യാപ്പ് നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ആപ്ലിക്കേഷനുകളെക്കുറിച്ചുള്ള ഈ പ്രത്യേക വിഭാഗത്തിൽ ഞാൻ നിങ്ങൾക്കു മുന്നിൽ അവതരിപ്പിക്കുന്ന അവസാന ആപ്ലിക്കേഷനാണിത് വ്യവസായത്തിലെ IOT നടപ്പിലാക്കലുകളിൽ നിന്ന് ലഭിക്കുന്ന പ്രശ്നങ്ങളുടെയും നേട്ടങ്ങളുടെയും ഒരു റീക്യാപ്പിലൂടെ നിങ്ങളെ കൊണ്ടുപോകുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ വ്യാവസായിക ഐഒടിയുടെ പ്രത്യേകതകളെക്കുറിച്ച് നമുക്ക് ഒരിക്കൽ കൂടി സംസാരിക്കാം നമ്മൾ ഇത് മുമ്പ് വിവിധ തലങ്ങളിൽ വിശദമായി നോക്കിയിരുന്നു ഇപ്പോൾ ഞാൻ നിങ്ങളെ അവിടെയുള്ള വ്യത്യസ്ത ആവശ്യകതകളുടെ സംഗ്രഹം തുറന്നുകാട്ടാൻ പോകുന്നു വ്യവസായങ്ങൾ കാലങ്ങളായി അതിന്റെതായ ഫാഷനുകളിൽ പ്രവർത്തിക്കുന്നു നാം എണ്ണ കെമിക്കൽ അല്ലെങ്കിൽ മാനുഫാക്ചറിംഗ് വ്യവസായങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് പതിറ്റാണ്ടുകളായി പരമ്പരാഗത രീതികൾ ഉപയോഗിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാൽ ഇപ്പോൾ നമ്മൾ IOT അല്ലെങ്കിൽ IIOT സൊല്യൂഷനുകളുടെ ഉപയോഗത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് നമ്മൾ ചില കാര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായാണ് അത് ചെയ്യുന്നത് നമ്മൾ കാര്യക്ഷമത മെച്ചപ്പെടുത്താനും മൊത്തത്തിലുള്ള ലാഭവും മറ്റും മെച്ചപ്പെടുത്താനും ആഗ്രഹിക്കുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ പരമ്പരാഗതമായ ഉൽപ്പന്നങ്ങൾക്കും പ്രക്രിയകൾക്കും മൂല്യം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഈ ഉൽപ്പന്നങ്ങളിലേക്കും സേവനങ്ങളിലേക്കും IOT തന്ത്രങ്ങളും IOT പരിഹാരങ്ങളും സമന്വയിപ്പിച്ച് മൂല്യം വർദ്ധിപ്പിക്കാൻ പോകുന്നു അതിനാൽ IOT സൊല്യൂഷനുകളുടെ ഈ സമീകരണത്തിലൂടെയോ സംയോജനത്തിലൂടെയോ മൂല്യവർദ്ധനവ് പുറത്തുവരണം അടിസ്ഥാനപരമായി എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമ്മൾ കാര്യക്ഷമത വിശ്വാസ്യത സുരക്ഷ സുരക്ഷ എന്നിവ വർദ്ധിപ്പിക്കാൻ പോകുന്നു ലാഭം വർദ്ധിപ്പിക്കുക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക അതേ സമയം ഉൽപ്പാദനച്ചെലവ് നിർമ്മാണച്ചെലവ് സാധനങ്ങളുടെ വില ഇത്തരത്തിലുള്ള ചിലവുകളെല്ലാം കുറയ്ക്കാൻ പോകുന്നു ചുരുക്കത്തിൽ ഉൽപ്പാദനക്ഷമത മെച്ചപ്പെടുത്തുക ചെലവ് കുറയ്ക്കുക എന്നിവ വ്യവസായ മേഖലയിൽ IOT സൊല്യൂഷനുകളുടെ സംയോജനത്തിന്റെ നേട്ടങ്ങളാണെന്ന് നമുക്ക് പറയാം ഇനി നമുക്ക് എണ്ണ വാതക വ്യവസായത്തിന്റെ പ്രത്യേകതകളിലേക്ക് വരാം എണ്ണ വാതക വ്യവസായ മേഖലയിൽ ആഗോളതലത്തിൽ വ്യത്യസ്തമായ ധാരാളം ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഈ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വ്യത്യസ്ത വ്യവസായങ്ങളിൽ പലതും അവരുടെ നിലവിലുള്ള പ്രക്രിയകൾ യന്ത്രസാമഗ്രികൾ മുതലായവയുമായി IoTയുടെ സംയോജനം വഴി സംഭവിക്കാൻ പോകുന്ന പരിഹാരങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് നേട്ടങ്ങൾ ഞാൻ തുടക്കത്തിൽ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്നാൽ സംയോജനത്തിലൂടെ എണ്ണ വാതക കമ്പനികൾക്ക് അവരുടെ നിലവിലുള്ള ആസ്തികളോ നേരിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും അത് അടിസ്ഥാനപരമായി ബിസിനസ്നു മൊത്തത്തിൽ സഹായിക്കുന്ന ഒന്നാണ് ബിസിനസ്സിന്റെ ഉൽപ്പാദനക്ഷമത ഉപഭോക്തൃ ബന്ധം അസറ്റ് മാനേജ്മെന്റ് എന്നിവ മെച്ചപ്പെടാൻ പോകുന്നു ചിലവ് കുറയ്ക്കൽ സംഭവിക്കാൻ പോകുന്നു അതിനാൽ IOT സൊല്യൂഷനുകളുടെ സംയോജനത്തിലൂടെ എണ്ണ വാതക വ്യവസായത്തിൽ ഇതെല്ലാമാണ് സംഭവിക്കാൻപോകുന്നത് ഇത് നിങ്ങൾക്ക് ഇതിനകം പരിചിതമായ കാര്യമാണ് നമ്മൾ അതിനെ വ്യത്യസ്ത രീതികളിൽ വീക്ഷിച്ചു പക്ഷേ അടിസ്ഥാനപരമായി ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം അതേപടി തുടരുന്നു അടിസ്ഥാനപരമായി മാറുന്ന കാര്യം വ്യവസായ ഡൊമെയ്ൻ നിർദ്ദിഷ്ട ആവശ്യകതകളാണ് എന്നാൽ ഒരു സാങ്കേതിക വീക്ഷണകോണിൽ നിന്ന് ഒരു IOT വിന്യാസ വീക്ഷണകോണിൽ നിന്നും IOT സൊല്യൂഷൻ വീക്ഷണകോണിൽ നിന്നും കാര്യങ്ങൾ അടിസ്ഥാനപരമായി സമാനമാണ് എന്നിരുന്നാലും വ്യത്യസ്ത ഡൊമെയ്നുകളിലെ നടപ്പാക്കൽ പ്രശ്നങ്ങളെക്കുറിച്ച് അൽപ്പം ആശയം ലഭിക്കുന്നതിന് സമ്പൂർണ്ണതയ്ക്കായി IOT യുടെ സമന്വയത്തിന്റെ മുഴുവൻ പ്രക്രിയയും നമുക്ക് വീണ്ടും പരിശോധിക്കാം ആത്യന്തികമായി നമുക്ക് എന്താണ് വേണ്ടത് നമുക്ക് ഡാറ്റ ആവശ്യമാണ് വ്യത്യസ്ത കാര്യങ്ങൾ ചെയ്യുന്നതിന് ഭാവിയിൽ സംഭവിക്കാനിടയുള്ള എന്തെങ്കിലും പ്രവചിക്കുന്നതിന് ഇതിനെല്ലാം ഡാറ്റ ആവശ്യമാണ് ഇങ്ങനെ പ്രവചിക്കുന്നവ സംഭവിക്കാനും സംഭവിക്കാതിരിക്കാനും സാധ്യത ഉണ്ട് പ്രക്രിയയുടെ വിവിധ ഭാഗങ്ങളെക്കുറിച്ചുള്ള ഡാറ്റ മെഷീനുകളുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള ഡാറ്റ ജോലി ചെയ്യുന്ന ജീവനക്കാരെ കുറിച്ചുള്ള ഡാറ്റയും പ്രവചനാത്മക വിശകലനം ലക്ഷ്യങ്ങളും ഉണ്ടായിരിക്കും അതിനാൽ ആ ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സെൻസറുകൾ ആക്യുവേറ്ററുകൾ തുടങ്ങിയ വ്യത്യസ്ത IOT ഉപകരണങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ വിന്യസിക്കാൻ പോകുന്നു പ്ലാന്റിലെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ പ്ലാന്റിനുള്ളിൽ പ്രക്രിയയിൽ ഏർപ്പെടാൻ പോകുന്ന വ്യത്യസ്ത മെഷീനുകളിൽ വിതരണ ശൃംഖലയിൽ തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ IOT ഉപകരണങ്ങൾ വിന്യസിക്കാൻ പോകുന്നു അതിനുശേഷം ഈ ഉപകരണങ്ങൾ ധാരാളം ഡാറ്റ സൃഷ്ടിക്കും ഈ ഡാറ്റയെ ചില സിമുലേറ്റഡ് ഡാറ്റ ഉപയോഗിച്ച വർദ്ധിപ്പിക്കാം ഇത്തരത്തിൽ വർദ്ധിപ്പിച്ച ഡാറ്റയെ പരിവർത്തനം ചെയ്യുന്നതിനും പ്രക്രിയകൾ ലോഡു ചെയ്യുന്നതിനും മുൻപായി വിശകലനം ചെയ്യാം അതിനുശേഷം etl പ്രക്രിയകൾ നടപ്പിലാക്കാം ഈ അടിസ്ഥാന etl പ്രോസസ്സിംഗിന് ശേഷം ക്ലൌഡ് അധിഷ്ഠിത പ്ലാറ്റ്ഫോമിലേക്ക് ഡാറ്റ നീക്കാൻ കഴിയും ക്ലൌഡ് അധിഷ്ഠിത പ്ലാറ്റഫോമിലാണ് ഡെപ്ത് അനലിറ്റിക്സ് നടത്താൻ പോകുന്നത് ഈ വിശകലന പരിഹാരങ്ങൾ തുടക്കത്തിൽ സജ്ജീകരിച്ച വിശകലന ലക്ഷ്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതാണ് അവസാനമായി വിശകലനത്തിന്റെ ഫലത്തെ അടിസ്ഥാനമാക്കി ആവശ്യമായ നടപടികൾ കൈക്കൊള്ളാൻ പോകുന്നു ഉദാഹരണത്തിന് ഉടനെയും ഭാവിയിലും അറ്റകുറ്റപ്പണികൾ ആവശ്യമുള്ള ഉപകരണങ്ങൾ തിരിച്ചറിയും വ്യത്യസ്ത മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കി ഡാറ്റയുടെ വേർതിരിവ് യന്ത്രസാമഗ്രികളുടെ വേർതിരിക്കൽ എന്നിവ ചെയ്യേണ്ടതായുണ്ട് IOTവിന്യാസം തുടങ്ങി മെഷിനറിയുടെ നിയന്ത്രണം വരെ IOT വിന്യാസത്തിന്റെ മൊത്തത്തിലുള്ള ജീവിതചക്രമാണ് എണ്ണ വാതക വ്യവസായത്തിൽ ഇത് നടപ്പിലാക്കാൻ പോകുന്നു കൃത്യമായി പറഞ്ഞാൽ ഇവ നടപ്പിലാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സംരംഭങ്ങൾ നിലവിൽ വന്നുകഴിഞ്ഞു അതിനാൽ വിശകലനത്തിനായി നമുക്ക് എന്താണ് വേണ്ടത് നമുക്ക് വലിയ പ്രോസസ്സിംഗ് കഴിവുകൾ ആവശ്യമാണ് മെഷീൻ ലേണിംഗ് നടപ്പിലാക്കാൻ പോകുന്നു മെഷിൻ ലേർണിംഗിലെയും ക്ളൌഡ് അധിഷ്ഠിത സേവനകളിലെയും ഘട്ടങ്ങൾ ഇവയാണ്അവ എണ്ണവാതക വ്യവസായത്തിനുള്ള IOT സംവിധാനങ്ങളുമായി സംയോജിപ്പിക്കാൻ പോകുന്നു ഇത് ഇതിനകം സംഭവിക്കുന്ന ഒന്നാണ് ഈ പരിഹാരങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനായി ആഗോളതലത്തിൽ ഈ വ്യവസായങ്ങളിൽ വ്യത്യസ്ത സംവിധാനങ്ങൾ വിന്യസിക്കപ്പെടുന്നു അടിസ്ഥാനപരമായി ഇത് ആരംഭിക്കുന്നത് ആർക്കിറ്റെക്ച്ചറിന്റെ നൽകുകയും സന്ദർഭ പരിമിതികളും പരിഹാരങ്ങളും ചിത്രീകരിക്കുകയും ഒരു റോഡ്മാപ്പ് സൃഷ്ടിക്കുകയും ചെയ്യുന്നു അതിനാൽ അനലിറ്റിക്സിന്റെ ഫലങ്ങൾ ഉചിതമായ നിരീക്ഷണത്തിനും മനസ്സിലാക്കലിനും അനുയോജ്യമായ ഒരു പ്രത്യേക വിഷ്വലൈസേഷൻ എഞ്ചിൻ വഴി ഈ ഘട്ടങ്ങളിലാണ് നടപ്പിലാക്കാൻ കഴിയുന്നത് മൊത്തത്തിൽ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തേണ്ടതുണ്ട് പ്രെഡിക്റ്റീവ് മെയിന്റനൻസ് ലൊക്കേഷൻ ഇന്റലിജൻസ് പൈപ്പ്ലൈൻ നിരീക്ഷണം ഉപകരണ നിരീക്ഷണം മെഷീനുകൾ പൈപ്പ് ലൈനുകളുമായി സംയോജിപ്പിച്ചിരിക്കുന്ന വ്യത്യസ്ത സെൻസറുകളുടെ നിരീക്ഷണം ഈ വ്യവസായങ്ങളിൽ പങ്കെടുക്കുന്ന യന്ത്രങ്ങൾ അവയുടെ നിർവഹണം ഫ്ലീറ്റ് ഓപ്പറേഷനുകൾ അങ്ങനെ IOT സൊല്യൂഷനുകളുടെ സംയോജനം ഉപയോഗിച്ച് മൊത്തത്തിലുള്ള പ്രകടനവും മെച്ചപ്പെടുത്താം ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞത് മാത്രമല്ല IOT ഉപഭോക്തൃ ലോയൽറ്റി വർദ്ധിപ്പിക്കാനും IOT ക്ക് കഴിയും ബിസിനസ്സ് ബന്ധിപ്പിക്കൽ വ്യത്യസ്ത ബിസിനസ്സുകളും മറ്റ് ഘടകങ്ങളും ബന്ധിപ്പിക്കൽ സ്മാർട്ട് ആപ്ലിക്കേഷനുകളുടെ ഊർജ്ജ ഉപഭോഗ പ്രൊഫൈലുകൾ തുടങ്ങിയവ അതിനാൽ ഈ കാര്യങ്ങളെല്ലാം മെച്ചപ്പെടുത്താനും ഈ വ്യത്യസ്ത വ്യവസായങ്ങളിലെ ഉപഭോക്താക്കൾക്ക് IOTഉപയോഗപ്രദമാക്കാനും ലഭ്യമാക്കാനും കഴിയും അതിനാൽ എണ്ണ വാതക വ്യവസായങ്ങളിൽ IOT ഉപയോഗിക്കുന്നതിന്റെ പ്രയോജനങ്ങൾ ഇതിനകം തന്നെ വ്യക്തമാണ് എന്നാൽ വ്യത്യസ്തമായ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് പുനഃപരിശോധിച്ച് സംഗ്രഹിക്കാൻ ശ്രമിക്കാം ഉൽപ്പാദനക്ഷമതയിൽ വർദ്ധനവ് ചെലവ് ലാഭിക്കൽ സമയം ലാഭിക്കൽ ആസ്തി പരിപാലനം മെച്ചപ്പെടുത്തൽ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കൽ തൊഴിൽ സുരക്ഷ വിതരണ ശൃംഖല ആസൂത്രണം തുടങ്ങിയവയാണ് നേട്ടങ്ങളിൽ ഉൾപ്പെടുന്നത് രാസവ്യവസായത്തിലും അതുപോലെ തന്നെ മൊത്തത്തിലുള്ള പ്രക്രിയകൾ മെച്ചപ്പെടുത്തുന്നതിനും ഉൽപ്പാദനക്ഷമത കൂട്ടുന്നതിനും ചെലവ് കുറയ്ക്കുന്നതിനും മറ്റും IOT ഉപയോഗിക്കാം അതിനാൽ ഒരിക്കൽ കൂടി രാസവ്യവസായത്തിലെ വ്യത്യസ്ത നേട്ടങ്ങൾ നമുക്ക് നോക്കാം നമുക്ക് പ്രവചനാത്മകമായ അറ്റകുറ്റപ്പണി മെച്ചപ്പെടുത്തൽ ഗുണനിലവാരം മെച്ചപ്പെടുത്തൽ വിവിധ ഉപകരണങ്ങളുടെ മാനേജ്മെന്റ് മെച്ചപ്പെടുത്തൽ വിതരണ ശൃംഖലയിലെ അപകടസാധ്യത കുറയ്ക്കൽ ഊർജ്ജ ചെലവുകൾ കുറയ്ക്കൽ ഇവയൊക്കെയാണ് രാസ വ്യവസായത്തിലെ IOT സംയോജനത്തിലൂടെ നേടാനാകുന്ന വ്യത്യസ്തനേട്ടങ്ങൾ തത്സമയം സംഭവിക്കാൻ പോകുന്നവയും ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നവയുമായ വ്യത്യസ്ത പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് പോലുള്ള പ്രവചനാത്മക അറ്റകുറ്റപ്പണികൾ സെക്കൻഡുകൾക്ക് ശേഷം രണ്ട് മിനിറ്റ് കഴിഞ്ഞ് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് സംഭവിക്കാവുന്ന കാര്യങ്ങൾ മുൻകൂട്ടി പ്രവചിക്കുക എന്നതാണ് പ്രവചനാത്മക പരിപാലന ആശങ്കകൾ ഉപകരണങ്ങളുടെ തകരാറുകളും പ്രവർത്തനരഹിതമായ സമയവും കുറയ്ക്കുക എന്നതാണ് പ്രവചനാത്മക അറ്റകുറ്റപ്പണിയുടെ പ്രയോജനം അതിനാൽ IOT സംയോജനത്തിലൂടെ ഉചിതമായ പ്രവചന പരിപാലനമാണ് വേണ്ടത് കാര്യക്ഷമവും ഫലപ്രദവുമായ പരിപാലനവും കാര്യക്ഷമമായ IOT അനലിറ്റിക്സ് പ്രോഗ്രാമുകളും വഴി ഗുണനിലവാരം മെച്ചപ്പെടുത്താനും അതിലൂടെ വിതരണം ചെയ്യുന്ന മൊത്തത്തിലുള്ള സേവനങ്ങൾ മെച്ചപ്പെടുത്താനും നമ്മൾ പോകുന്നു അതിനാൽ അവസ്ഥ അടിസ്ഥാനമാക്കിയുള്ള നിരീക്ഷണം സാധ്യമാകും തുടർച്ചയായ നിരീക്ഷണം വെള്ളം പോഷകങ്ങൾ കീടനാശിനികൾ അവയുടെ വിശകലനം തത്സമയം വിശകലനം എന്നിവയിലൂടെ ഗുണനിലവാരം പ്രവചിക്കാൻ ഐഒടി സംയോജനത്തിലൂടെ സാധ്യമാണ് കാലാവസ്ഥയും കൃഷിയിൽ അവയുടെ സ്വാധീനവും പ്രവചിക്കുന്ന അനലിറ്റിക്സ് ലോജിസ്റ്റിക്സ് മെച്ചപ്പെടുത്തൽ സെൻസറുകൾ അല്ലെങ്കിൽ RFID ടാഗുകൾ വഴി ഉൽപ്പന്നങ്ങളുടെ ലൊക്കേഷൻ ഉറപ്പാക്കൽ നഷ്ടം തടയുന്നതിന് അസറ്റുകളുടെ ട്രാക്കിംഗ് മലിനീകരണം അല്ലെങ്കിൽ ആക്രമണങ്ങൾ കണ്ടെത്തൽ അലേർട്ട് അറിയിപ്പ് വെയർഹൌസ് നിരീക്ഷണം എന്നിവയാണ് ലോജിസ്റ്റിക്സ് മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന വ്യത്യസ്ത കാര്യങ്ങൾ ഊർജ്ജ ചെലവുകൾ സംബന്ധിച്ച വ്യത്യസ്ത സ്വഭാവസവിശേഷതകൾ ഇവയാണ് ഊർജ്ജ ചെലവ് കുറയ്ക്കൽ ഊർജ്ജ ഉപയോഗം കാര്യനിർവ്വഹണ നിയന്ത്രണം തത്സമയ ഡാറ്റ വിശകലനം ചെയ്യൽ ഉപയോഗ രീതി മെച്ചപ്പെടുത്തൽ ഉപയോക്താക്കളുടെ പെരുമാറ്റ രീതി കാര്യക്ഷമതയില്ലായ്മ എന്നിവ പരിമിതപ്പെടുത്തൽ ഊർജ്ജ ചെലവുകൾ കുറയ്ക്കുകഎന്നതാണ് പ്രധാനം വിതരണ ശൃംഖലയിലെ അപകടസാധ്യത കുറയ്ക്കുന്നു കെമിക്കൽ നിർമ്മാതാക്കൾക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം ആവശ്യമായ പ്രക്രിയയോട് ഉടനടി പ്രതികരിക്കാൻ കഴിയുന്നു ഉപകരണങ്ങളുടെ വിതരണ ശൃംഖലയിലെ തത്സമയ നിരീക്ഷണം ഉപയോഗിക്കുന്ന വസ്തുക്കൾ അസംസ്കൃത വസ്തുക്കൾ പൂർത്തിയായ ഉൽപ്പന്നങ്ങൾ വിവിധ ചരക്കുകളുടെ മാറ്റിയെടുക്കൽ തൊഴിലാളികളുടെ സാഹചര്യം എല്ലാം തത്സമയം ആയി തന്നെ പ്രതികരിക്കാൻ കഴിയുന്നു മുഴുവൻ വിതരണ ശൃംഖലയുടെയും വിതരണത്തിൽ പങ്കെടുക്കുന്നവരുടെയും നിരീക്ഷണം നടക്കുന്നു അത് മനുഷ്യരായാലും തൊഴിലാളികളായാലും വ്യത്യസ്തമായ യന്ത്രങ്ങളായാലും വിതരണ ശൃംഖലയിലെ എല്ലാ കാര്യങ്ങളിലും തത്സമയം ആയി നിരീക്ഷിക്കാൻ കഴിയും ഫാർമസ്യൂട്ടിക്കൽ വ്യവസായത്തിലെ IOT യെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കു ഇത് വേണ്ടത്ര വിശദമായി മനസ്സിലാക്കുന്നുണ്ടോ എന്ന് നോക്കാം നമ്മൾ ഒരു എണ്ണ അല്ലെങ്കിൽ രാസ വ്യവസായത്തിൽ IOT നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് വിചാരിക്കാം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വ്യത്യസ്ത വ്യവസായങ്ങളെക്കുറിച്ച് ആണ് വ്യത്യസ്ത സെൻസറുകൾ വിന്യസിച്ചിരിക്കുന്ന വ്യവസായങ്ങൾ എന്ന് പറയാം വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത സെൻസറുകൾഅതിനാൽ നാം ഈ വ്യത്യസ്ത സെൻസറുകളെല്ലാം വിന്യസിക്കാൻ പോകുന്നു വ്യത്യസ്ത സെൻസറുകൾഫീൽഡുകൾഫീൽഡ് ഉപകരണങ്ങൾ തുടങ്ങിയവ വ്യവസായങ്ങളുടെ വ്യത്യസ്ത നിലകളിലെ വിവിധ ഭാഗങ്ങളിൽ അതിനാൽ ഈ വ്യത്യസ്ത സെൻസറുകളെല്ലാം വിന്യസിക്കുന്നു അവസാനമായി ഈ ഡാറ്റ സ്റ്റോറേജും പ്രോസസ്സിംഗ് ശേഷിയും ഉള്ള സെർവറിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലൌഡ് സേവനത്തിലേക്കോ എത്തിക്കുന്നു ഈ ഡാറ്റ വിശകലനം ചെയ്ത് മാനേജർക്ക് ലഭ്യമാക്കും അതിനാൽ ഉയർന്ന തലത്തിലുള്ള മാനേജറിനെ ആണ് പരാമർശിക്കുന്നത് ആ ഡാറ്റയിലേക്ക് ആക്സസ് ആവശ്യമുള്ള ഏതു മാനേജരും ആകാം രാസ എണ്ണ വ്യവസായത്തിന് ഈ വ്യത്യസ്ത സെൻസറുകൾ ഉപയോഗിക്കാൻ കഴിയുന്ന വ്യത്യസ്ത സെൻസറുകൾക്കായി ഞാൻ വ്യത്യസ്ത തലങ്ങൾ നൽകിയിട്ടുണ്ട് ഉപയോഗിക്കാവുന്ന വ്യത്യസ്ത സെൻസറുകൾ ടെമ്പറേച്ചർ സെൻസർ പ്രോക്സിമിറ്റി സെൻസർ പ്രഷർ സെൻസർ ജലഗുണ സെൻസർ പോലെയുള്ള പൊതുവായ ജനറിക് സെൻസറുകൾ ആകാം അതിനാൽ ഇവയാണ് വ്യത്യസ്ത തരം സെൻസറുകൾ കൂടാതെ ചില പ്രത്യേക കെമിക്കൽ സെൻസറുകളും ഉപയോഗിക്കാം കൂടാതെ ചില കെമിക്കൽ സെൻസറുകളും ഉപയോഗിക്കാം ഉദാഹരണത്തിന് കെമിക്കൽ ഫീൽഡ് ഇഫക്റ്റ് ട്രാൻസിസ്റ്ററുകൾ ഇലക്ട്രോകെമിക്കൽ ഗ്യാസ് സെൻസറുകൾ അല്ലെങ്കിൽ മറ്റ് വ്യത്യസ്ത തരം ഗ്യാസ് സെൻസറുകൾ ഫ്ലൂറസെന്റ് ക്ലോറൈഡ് സെൻസറുകൾ ഇവയൊക്കെ ഉണ്ടാകാം pH സെൻസർ വളരെ സാധാരണമായ ഒന്നാണ് കൂടാതെ പൊട്ടൻഷിയോമീറ്റർ സെൻസറുകൾ അതിനാൽ ഇവയൊക്കെയാണ് കെമിക്കൽ സെൻസറുകൾ അതുപോലെ ഗ്യാസ് സെൻസറുകൾ കാർബൺ മോണോക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡ് മീഥേൻ ഗ്യാസ് സെൻസർ തുടങ്ങിയ ഏതെങ്കിലും ഗ്യാസ് സെൻസറുകളായിരിക്കാം കൂടാതെ NOx ഗ്യാസ് സെൻസറുകളും മറ്റും ഉണ്ട് വ്യത്യസ്ത സെൻസറുകൾ ഉണ്ട് ഞാൻ സൂചിപ്പിച്ച ഈ വ്യത്യസ്ത സെൻസറുകളിൽ ചിലതാണ് കെമിക്കൽ ഡൊമെയ്നും ഗ്യാസ് ഡൊമെയ്നും വ്യവസായ സ്കെയിലിലെ സെൻസറുകളെ കുറിച്ച് നമ്മൾ സംസാരിച്ചപ്പോൾ ഗ്യാസ് സെല്ലുകളുടെ സെൻസറിന്റെ വികസനത്തെക്കുറിച്ചും നമ്മൾ പറഞ്ഞു ഗ്യാസ് സെൻസർ ഫാബ്രിക്കേഷനും ഗ്യാസ് സെൻസറുകൾ എങ്ങനെ വിവിധ വാതകങ്ങളുടെ സാന്ദ്രത നിരീക്ഷിക്കാൻ സഹായിക്കുമെന്നും അടിസ്ഥാനപരമായി കൈകാര്യം ചെയ്യുന്ന ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സൌകര്യങ്ങളിലൊന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതന്നിരുന്നു ഗ്യാസ് സെൻസറുകൾ യഥാർത്ഥത്തിൽ ഈ എണ്ണ വാതക വ്യവസായങ്ങളിലും ബാധകമാണ് അതിനാൽ അവ എണ്ണ വാതക വ്യവസായത്തിനും ഉപയോഗിക്കാം സാധാരണയായി എണ്ണയും വാതകവും സംഭരിക്കുന്നതോ അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്നതോ ആയ പോയിന്റിൽ നിന്ന് എണ്ണയും വാതകവും കൊണ്ടുപോകുന്നതിന് വ്യത്യസ്ത മാർഗങ്ങളുണ്ട് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊന്നിലേക്ക് വാതകം കൊണ്ടുപോകാൻ സഹായിക്കുന്ന വലിയ വ്യാസവും കട്ടിയുമുള്ള വ്യത്യസ്ത വാതക പൈപ്പുകൾ ഉണ്ട് ഇവ തികച്ചും സാധാരണമാണ് അതിനാൽ പ്രത്യേകിച്ച് വൻകിട എണ്ണ വ്യവസായം വലിയ ഗ്യാസ് കമ്പനികളാണ് നടത്തുന്നത് അവർ ഈ ഗ്യാസ് പൈപ്പുകൾ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊന്നിലേക്ക് എണ്ണ കൊണ്ടുപോകാൻ വിന്യസിക്കുന്നു അതിനാൽ ഈ ഗ്യാസ് ലൈനുകളുടെ പൊതുവായ പ്രശ്നങ്ങളിലൊന്ന് വിതരണ ലൈനുകളുടെ ചോർച്ചയാണ് അതിനാൽ ഈ ട്രാൻസ്മിഷൻ ലൈനുകളിലെ ഏതെങ്കിലും പോയിന്റുകളിൽ വാതക ചോർച്ച പൈപ്പ്ലൈൻ ചോർച്ച അല്ലെങ്കിൽ എണ്ണ ചോർച്ച പോലും സംഭവിക്കാം അതിനാൽ ചോർച്ച കണ്ടെത്തൽ ചോർച്ച നിരീക്ഷിക്കൽ എന്നിവയും വളരെ പ്രധാനമാണ് അടിസ്ഥാനപരമായി ഗ്യാസ് പൈപ്പ് നിരീക്ഷണത്തിനായി ഉചിതമായ സെൻസറുകൾ വിന്യസിക്കുന്നത് വളരെ അറിയപ്പെടുന്ന ഒരു പ്രശ്നമാണ് അത് ഉൽപ്പാദനം പ്രക്ഷേപണം തുടങ്ങിയവ മെച്ചപ്പെടുത്തുന്നതിനു IOT ഉപയോഗിക്കാവുന്നതാണ് എണ്ണ വാതക വ്യവസായത്തിലെ വ്യത്യസ്ത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വ്യത്യസ്ത സെൻസറുകൾ ഉപയോഗിക്കുന്നത് ഇതിനു ഒരു ഉദാഹരണമാണ് ഫാർമസ്യൂട്ടിക്കൽ വ്യവസായത്തിലെ ഐഒടിയെക്കുറിച്ച് നമുക്ക് ഇപ്പോൾ ഒരു ഹ്രസ്വ അവലോകനം നടത്താം ഇതും വളരെ സമാനമാണ് അതിനാൽ ഫാർമസ്യൂട്ടിക്കൽ ഉത്പാദനം അത് വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്നു അങ്ങനെ ഒടുവിൽ അത് ചില പരീക്ഷണങ്ങളിലൂടെ കടന്നുപോകുന്നു ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ വ്യത്യസ്തത ഉപകരണങ്ങളുടെയും വ്യത്യസ്തമായ ഘട്ടങ്ങളിലൂടെയും നിർമ്മച്ചു പല പരീക്ഷങ്ങളും നടത്തിയാണ് മാർക്കറ്റിൽ പലതരത്തിൽ ഉള്ള മരുന്നുകൾ എത്തിക്കുന്നത് ഈ മുഴുവൻ ഉൽപ്പാദന പ്രക്രിയയിലും മരുന്നുകളുടെ ഗുണനിലവാരം നിരീക്ഷിക്കുന്നതിനുള്ള പ്രക്രിയകൾ മെച്ചപ്പെടുത്തുന്നതിനായി വിതരണ ശൃംഖലയും മറ്റും സെൻസറുകളും IOT സൊല്യൂഷനുകളും വിന്യസിക്കാം ഇവ ഇടയിലുള്ള ഘട്ടങ്ങളിലും നിരീക്ഷണത്തിനായി ഉപയോഗിക്കാം എല്ലാം കൂടുതൽ കാര്യക്ഷമമായും കൃത്യമായും ചെയ്യാൻ കഴിയും അതിനാൽ ഉൽപ്പാദന മേഖലകളിൽ IOT സെൻസറുകൾ വിന്യസിച്ചാൽ ഈ ഫാർമസ്യൂട്ടിക്കൽ ഉപയോഗങ്ങൾ ഇവയൊക്കെയാണ് ഫാർമസ്യൂട്ടിക്കൽ വ്യവസായത്തിലെ IOT ആപ്ലിക്കേഷനുകളിൽ അന്തിമ മരുന്നുകളുടെ പരിശോധന മാത്രമല്ല ഉൾപ്പെടുന്നുതു അസംസ്കൃത വസ്തുക്കളെ അന്തിമ മരുന്നുകളാക്കി മാറ്റുന്നതിന് ഇടയിൽ സംഭവിക്കുന്ന പ്രക്രിയകളും കൂടി ഉൾപ്പെടുന്നു അസംസ്കൃത വസ്തുക്കൾ മുതൽ അന്തിമ മരുന്നുകൾ വരെ നോക്കുമ്പോൾ അവയുടെ ഗുണനിലവാരം അളവ് മുതലായവ പരിശോധിച്ച് രാസവസ്തുവിന്റെ പരിവർത്തനത്തിനു ആവശ്യമായ വിവിധ രാസപ്രവർത്തനങ്ങൾ കൂടി നിരീക്ഷിക്കുന്നു അടിസ്ഥാനപരമായി ഈ മുഴുവൻ പ്രക്രിയയിലും IOT പരിഹാരങ്ങൾ വിന്യസിക്കാൻ കഴിയും മരുന്ന് ഉല്പാദനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മറ്റു രാസവസതുക്കളുടെ പ്രതികൂലമായിട്ടുള്ള പ്രതികരണങ്ങൾ കണ്ടെത്തുന്നതിനും അലർജികൾ കണ്ടെത്തുന്നതിനും മറ്റ് സങ്കീർണതകൾ കണ്ടെത്തുന്നതിനും വേണ്ടി IOT ഉപയോഗിക്കാം ഫാർമസ്യൂട്ടിക്കൽ സഹായത്തോടെയാണ് ഇവ ചെയ്യുന്നത് അതിനാൽ തത്സമയ നിരീക്ഷണത്തിലൂടെ ഗുണനിലവാര നിയന്ത്രണം സുരക്ഷിതമായ മരുന്ന് വിതരണം വ്യത്യസ്ത പരിഹാരങ്ങളുടെ വിന്യാസം മൂലം മെച്ചപ്പെട്ട ഉൽപ്പാദനം മെച്ചപ്പെട്ട നിരീക്ഷണം നിയന്ത്രണം വിതരണം എന്നിവ സാധ്യമാകും ലോജിസ്റ്റിക്സ് വ്യവസായത്തിൽ IOT സംയോജിപ്പിക്കുന്നത് വഴി ഇവയും മെച്ചപ്പെടാൻ പോകുന്നു അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഫാർമസ്യൂട്ടിക്കൽ വ്യവസായത്തിൽ നാം ഉപയോഗിക്കാൻ പോകുന്ന വ്യത്യസ്ത തരം സെൻസറുകൾ ലിസ്റ്റ് ചെയ്യുന്നു ഫാർമസ്യൂട്ടിക്കൽ മാർഗങ്ങളിലൂടെയും വിതരണം ചെയ്യാൻ പോകുന്നു അസംസ്കൃത വസ്തുക്കൾ വ്യത്യസ്ത തരം പ്രോസസ്സിംഗിന് വിധേയമാകുന്നു വിവിധ സമ്മർദ്ദങ്ങളിലൂടെ നിശ്ചിത സമ്മർദ്ദാവസ്ഥയിൽ താപനിലയുടെ അവസ്ഥയിൽ ചില ആർദ്രതയുടെ അവസ്ഥയിൽ അങ്ങനെ പല തരത്തിൽ വ്യത്യസ്ത രാസ ചികിത്സയ്ക്ക് വിധേയമാക്കുന്നു വ്യത്യസ്ത കെമിക്കൽ ഏജന്റ്സ് ഉപയോഗിച്ച് വ്യത്യസ്ത പ്രതിപ്രവർത്തനങ്ങൾ നടത്തുന്നു നിശ്ചിത താപനില ഈർപ്പം ലൈറ്റിംഗ് അവസ്ഥയ്ക്ക് കീഴിലുള്ള റിയാക്ടറുകൾ തുടങ്ങിയവ അതിനാൽ ഏത് സെൻസറുകളാണ് ഉപയോഗിക്കാൻ പോകുന്നത് ചില പ്രത്യേക രാസവസ്തുക്കൾ കണ്ടെത്തൽ നിർദ്ദിഷ്ട രാസവസ്തുക്കൾ താപനില സെൻസർ പോലുള്ള പ്രത്യേക സെൻസറുകൾ എന്നിവയ്ക്ക് പുറമേ ലൈറ്റ് സെൻസറുകൾ ടെമ്പറേച്ചർ സെൻസർ വ്യവസായത്തിൽ ഉപയോഗിക്കാവുന്ന വ്യത്യസ്ത പ്രഷർ സെൻസറുകൾ ഉണ്ട് ഈ സെൻസറുകളിൽ ചിലതിന്റെ പേരുകൾ ടെമ്പറേച്ചർ സെൻസർ എന്നിവ കണ്ടെത്തുക എന്നിവയാണ് PH സെന്സറുകളുടെ ഉപയോഗം അതിനാൽ ഒടുവിൽ നമ്മൾ അവസാനിപ്പിക്കുന്നു പതിവുപോലെ ഇവിടെ വ്യത്യസ്തമായ റഫറൻസുകളാണ് പോലെയുള്ള ഓപ്പൺ മീഡിയകളിൽ നിങ്ങൾക്ക് ഇത് പരിശോധിക്കാവുന്നതാണ് ഒടുവിൽ നമ്മൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം